ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ക്ലാസിലേക്ക് തിരികെ സ്വാഗതം എന്റെ പേര് ആരാധന മാലിക് ഈ കോഴ്സിൽ ഞാൻ നിങ്ങളെ സഹായിക്കുന്നു നമ്മുടെ പക്കലുള്ള മാനവ വിഭവശേഷി അല്ലെങ്കിൽ നമ്മൾ നടപ്പിലാക്കിയ മാനവ വിഭവശേഷി പ്രക്രിയകൾ ഓർഗനൈസേഷന് മൂല്യവർദ്ധിതമാക്കിയത് എങ്ങനെയെന്ന് വിലയിരുത്തുന്നതിന് മാനവ വിഭവശേഷി മാനേജ്മെന്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ തരം സ്കോർകാർഡുകൾ ഇന്ന് ചർച്ച ചെയ്യും അതിനാൽ നമുക്ക് പോകാം സ്കോർ കാർഡുകളുടെ തരങ്ങൾ ചില ഉറവിടങ്ങൾ ഗിൽമോർ വില്യംസ് എന്നിവരുടെ ഈ പുസ്തകമുണ്ട് കൂടാതെ ആ പുസ്തകത്തിൽ ഞാൻ ഉപയോഗിച്ച ഒരു പേപ്പർ ഉണ്ട് ജെ ജെ ഫിലിപ്സിന്റെ ഈ അധ്യായമുണ്ട് കൂടാതെ ശ്രീമൻനാരായണന്റെ ഒരു പേപ്പർ ഉണ്ട് വിവിധ തരം സ്കോർകാർഡുകൾ ഉപയോഗിക്കുന്നു ഫിലിപ്സ് വളരെ നന്നായി വിവരിച്ചിരിക്കുന്നതുപോലെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ആദ്യത്തേത് ബേസിക് ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് സ്കോർകാർഡ് എന്നാണ് അടിസ്ഥാന ഐപിഒ സ്കോർകാർഡ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്തിന്റെയും റെക്കോർഡുകൾ സൂക്ഷിക്കുന്നതിനുള്ള വളരെ ലളിതമായ ഒരു മാർഗമാണിത് സ്ഥാപനത്തിലേക്ക് പോകുന്ന പ്രക്രിയകൾ നമ്മൾ കണക്കാക്കുന്നു നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നു സംഘടനയുടെ വളർച്ചയ്ക്കായി നമ്മൾ സ്വീകരിക്കുന്ന നടപടികൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് നമ്മൾ സ്വീകരിക്കുന്ന നടപടികൾ കൂടാതെ ഈ നടപടികൾ നമ്മൾ സ്ഥാപിക്കുന്ന പ്രോഗ്രാമുകൾ നമ്മൾ എടുക്കുന്ന പങ്കാളികൾ ചെലവുകൾ ജീവനക്കാർ വിഭവങ്ങളുടെ അളവ് എന്നിവ ആകാം ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് എടുക്കുന്ന സമയം പങ്കാളിത്ത നിരക്ക് പ്രമോഷൻ നിരക്കുകൾ മുതലായവയാണ് പ്രക്രിയ നടപടികൾ അതിനാൽ ഇൻപുട്ട് ഘട്ടത്തിൽ നമ്മൾ ഇട്ടിരിക്കുന്ന വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനായി നമ്മൾ കടന്നുപോകുന്ന പ്രക്രിയകളും ഫലത്തിന്റെ അളവുകളും എത്രപേർ ഇപ്പോഴും ഓർഗനൈസേഷനിൽ തുടരാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ വിലയിരുത്തുന്നു അതിനാൽ നിലനിർത്തൽ നിരക്കുകൾ കണക്കാക്കാം ജീവനക്കാരുടെ ഉൽപ്പാദനക്ഷമത കണക്കാക്കാം പ്രകടന അവലോകനങ്ങൾ അഭിമുഖങ്ങൾ മൂല്യനിർണ്ണയങ്ങൾ തുടങ്ങിയവയിലൂടെ തൊഴിൽ സംതൃപ്തി വിലയിരുത്താവുന്നതാണ് അതിനാൽ നമ്മൾ ചെയ്യുന്നതെന്തും ആർക്കും ഉപയോഗപ്രദമാണോ അല്ലയോ എന്ന് വിലയിരുത്തുന്നതിനുള്ള വളരെ ലളിതമായ പ്ലസ് മൈനസ് രീതിയാണിത് ഇതാണ് അടിസ്ഥാന ഐപിഒ സ്കോർകാർഡ് അഥവാ ഇൻപുട്ട് പ്രോസസ്സ് ഔട്ട്പുട്ട് സ്കോർകാർഡ് സ്കോർകാർഡുകളുടെ അടുത്ത രൂപം നമ്മൾ കൂടുതൽ വിശദാംശങ്ങൾ എടുക്കുന്ന കാര്യകാരണ ശൃംഖല സ്കോർകാർഡാണ് ഇത് IPO സ്കോർകാർഡിന്റെ കൂടുതൽ വിശദമായ തരമാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ കണ്ടെത്തുന്നു അതിനാൽ നമ്മൾ എല്ലാം വിശദമായി വിലയിരുത്തുന്നു ആളുകൾ പ്രോജക്റ്റുകൾ സമയം മുതലായവയുടെ ചില ഇൻപുട്ട് നടപടികളുണ്ട് പിന്നെ ചെലവ് അളവുകൾ ഓരോ ഇൻപുട്ടിനും എത്രമാത്രം ചിലവായി എന്ന് നമ്മൾ കണ്ടെത്തുന്നു അതിനാൽ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ കഴിയും ഈ കാര്യങ്ങൾ കറുപ്പും വെളുപ്പും ഇടാം അതിനാൽ നമ്മൾ എത്ര പേരെ റിക്രൂട്ട് ചെയ്തു അവരെ റിക്രൂട്ട് ചെയ്യാൻ നമ്മൾ എത്ര പണം ചെലവഴിച്ചു എത്ര പേർ പരിപാടികളിൽ പങ്കെടുത്തു ആ പരിപാടികൾക്കായി നമ്മൾ എത്ര രൂപ ചെലവഴിച്ചു അതിനാൽ എല്ലാ പ്രവർത്തനത്തിനും നമ്മൾ ഇത് ചെയ്യുന്നു ഞാൻ കൂടുതൽ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് സ്കോർകാർഡുകൾ നിർദ്ദിഷ്ട പ്രവർത്തനങ്ങൾക്ക് വളരെ പ്രത്യേകമാണെന്ന് ഞാൻ വ്യക്തമാക്കണം നമ്മൾ നിർവചിച്ച പാരാമീറ്ററുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ പ്രവർത്തനവും നമ്മൾ വിലയിരുത്തുകയും ആ പ്രവർത്തനം നമ്മൾക്ക് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് കാണുകയും ചെയ്യുന്നു അതിനാൽ ഞാൻ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഓരോ സ്കോർകാർഡും ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യും പരിശീലന പരിപാടികളുടെ ഉദാഹരണം എടുക്കാം നിങ്ങളുടെ ഓഫീസിലേക്ക് നമ്മൾ ഒരു പുതിയ സാങ്കേതികവിദ്യ കൊണ്ടുവരികയാണെന്ന് നമുക്ക് അനുമാനിക്കാം ഉദാഹരണത്തിന് നമ്മൾക്ക് ഇവിടെ ഐഐടിയിൽ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് ഉണ്ട് കൂടാതെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് ആ സാങ്കേതികവിദ്യ നടപ്പിലാക്കാൻ നിങ്ങളുടെ സ്ഥാപനം പദ്ധതിയിടുന്നുണ്ടാകാം അതിനാൽ നമ്മൾ ഐപിഒ ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് സ്കോർകാർഡ് ചർച്ചചെയ്യുമ്പോൾ ആളുകൾക്ക് പ്രോഗ്രാം എത്ര തവണ നൽകണമെന്ന് നിങ്ങൾ കണ്ടെത്തും ഇആർപിയുടെ പരിശീലന പരിപാടിയിൽ എത്ര പേർ പങ്കെടുക്കുന്നുവെന്ന് നിങ്ങൾ കണ്ടെത്തും കൂടാതെ ഓരോ പങ്കാളിക്കും ഉൾപ്പെട്ട ചെലവുകൾ പരിശീലനത്തിലും മറ്റും പങ്കെടുക്കാത്ത പ്രോഗ്രാം നടത്തിപ്പിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാരുടെ എണ്ണം മുതലായവ അതിനാൽ ഈ കാര്യങ്ങളുടെയെല്ലാം ഒരു ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കും തുടർന്ന് പ്രോഗ്രാമിലൂടെ യഥാർത്ഥത്തിൽ എത്രപേർ താമസിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തും എത്ര പേർ പ്രോഗ്രാം തുടക്കം മുതൽ അവസാനം വരെ പൂർത്തിയാക്കുന്നു തുടർന്ന് നിങ്ങൾ നിലനിർത്തൽ ഉൽപ്പാദനക്ഷമത ഔട്ട്പുട്ട് എന്നിവയിലേക്ക് നീങ്ങുന്നു ഈ ERP നിങ്ങളുടെ ബിസിനസിനെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് അതിനാൽ ഏത് പ്രക്രിയകളൊക്കെ ലളിതമാക്കിയിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ എത്ര ആളുകളെ നിലനിർത്തുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം നിങ്ങളുടെ ബിസിനസിനെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് ഇത് നടപ്പിലാക്കുന്നതിന് മുമ്പ് ഓരോ പ്രക്രിയയും എത്ര സമയമെടുത്തു കൂടാതെ ഇപ്പോൾ എത്ര സമയമെടുക്കുന്നു വ്യത്യാസം പ്രധാനമാണെങ്കിൽ അതിനർത്ഥം ഇതൊരു പോസിറ്റീവ് ഇൻപുട്ടാണ് എന്നാണ് വ്യത്യാസം കുറഞ്ഞതോ അല്ലെങ്കിൽ വ്യത്യാസം ഇല്ലെങ്കിലോ അല്ലെങ്കിൽ വ്യത്യാസം നെഗറ്റീവോ ആണെങ്കിൽ ഉദാഹരണത്തിന് ജീവനക്കാരുടെ ശമ്പളത്തിന്റെ രേഖകൾ നിലനിർത്തുന്നത് അവരുടെ ശമ്പളം എങ്ങനെയായിരുന്നുവെന്ന് അവരോട് പറയുന്നത് അല്ലെങ്കിൽ ലീവ് മെയിന്റനൻസ് തുടക്കത്തിൽ പേനയും പേപ്പറും ഉപയോഗിച്ച് ആളുകൾക്ക് അവധിക്ക് അപേക്ഷിക്കേണ്ടിവന്നാൽ ലീവ് ലെറ്റർ യഥാർത്ഥത്തിൽ ലീവ് അംഗീകരിച്ച് ഫയൽ ചെയ്ത വ്യക്തിക്ക് എത്താൻ രണ്ടോ മൂന്നോ ദിവസമെടുത്തു അതിനാൽ ഒരു ദിവസത്തെ കാഷ്വൽ ലീവ് ആവശ്യമാണെങ്കിൽ ഈ ലീവ് കുറിപ്പ് വ്യക്തിയുടെ സ്വകാര്യ ഫയലിൽ പ്രവേശിക്കുന്നത് വരെ എടുത്ത ആകെ സമയം ഏകദേശം 3 ദിവസമായിരുന്നു കൂടാതെ ഈ പ്രക്രിയ നടപ്പിലാക്കിയ ശേഷം കാര്യങ്ങൾ അംഗീകരിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു എടുത്ത സമയം 3 ദിവസമോ 2 12 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസമോ ആണ് അപ്പോൾ ഈ പ്രക്രിയ നടപ്പിലാക്കുന്നത് വിലപ്പോവില്ല മറുവശത്ത് തുടക്കത്തിൽ എടുത്ത സമയം 3 ദിവസമാണെങ്കിൽ കൂടാതെ ഇത് 1 ദിവസം അല്ലെങ്കിൽ 12 ദിവസമായി ചുരുക്കിയിരിക്കുന്നു ഏത് സമയത്തും ആപ്ലിക്കേഷൻ എവിടെയാണെന്ന് ജീവനക്കാരന് കാണാനാകും അപ്പോൾ ഇത് ഒരു പോസിറ്റീവ് കൂട്ടിച്ചേർക്കലാണ് ഇൻപുട്ടിന്റെയും ഔട്ട്പുട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ അളക്കുന്നത് അടുത്തത് ഈ പ്രോഗ്രാമുകളിലൂടെ എത്രപേർ കടന്നുപോകുന്നു ഉൾപ്പെടുന്ന ചെലവുകൾ പ്രതികരണവും സംതൃപ്തിയും വീണ്ടും വിലയിരുത്തുന്നു തുടർന്ന് പ്രതികരണ നടപടികൾ കണക്കാക്കുന്നു അതിനാൽ ഒരു പ്രത്യേക പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ സംതൃപ്തരാണോ അല്ലയോ എന്ന് നമ്മൾ കണ്ടെത്തുന്നു നിങ്ങൾ ഒരു പ്രോഗ്രാമിലൂടെ അവരെ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾ ആരംഭിച്ച പുതിയ കാര്യത്തോടുള്ള അവരുടെ പ്രതികരണം എന്താണ് അവർ തൃപ്തരായോ അവർ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമാണോ അവർ വല്ലതും പഠിക്കുന്നുണ്ടോ എന്താണ് അവരുടെ പ്രതികരണം തുടർന്ന് പഠന നടപടികൾ യഥാർത്ഥത്തിൽ പുതിയ പ്രോഗ്രാമോ പുതിയ പരിശീലന പരിപാടിയോ അവരെ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ അതിനാൽ വിജ്ഞാന നൈപുണ്യത്തിലും ധാരണകളിലും എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ ഈ പുതിയ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം നടപ്പിലാക്കിയതിലൂടെ അവധിക്ക് അപേക്ഷിക്കുന്നത് എളുപ്പമായെന്ന് ആളുകൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടാണോ ഒരുപക്ഷേ നേരത്തെ അവർ ഫോൺ എടുത്ത് അവരുടെ അപേക്ഷ എവിടെയാണെന്ന് ചോദിക്കും പക്ഷേ ആപ്ലിക്കേഷൻ എവിടെയാണെന്ന് അറിയാത്ത വിധം സുരക്ഷിതമാണ് ഈ സംവിധാനം ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെന്ന് മാത്രം അത് പറയും അതിനാൽ അവർക്ക് അറിയില്ല മറുവശത്ത് ഈ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം തടസ്സം എവിടെയാണെന്ന് അവരോട് പറയുകയാണെങ്കിൽ അവർക്ക് വ്യക്തിപരമായി പോയി അപേക്ഷ ശരിയാക്കാൻ ബന്ധപ്പെട്ട വ്യക്തിയോട് അഭ്യർത്ഥിക്കാം അല്ലെങ്കിൽ ബന്ധപ്പെട്ട വ്യക്തി അവധിയിലാണോ മറ്റാരെങ്കിലും ചുമതലക്കാരനാണോ എന്ന് അവർക്ക് കണ്ടെത്താനാകും കൂടാതെ അവർ ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തരാവസ്ഥയാണെങ്കിൽ അവർക്ക് കണ്ടെത്താനാകും അപ്പോൾ ഒരുപക്ഷേ അത് നല്ലതാണ് അതിനാൽ മുഴുവൻ പ്രക്രിയയുടെയും ധാരണയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു ലീവ് എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇത് വേദനാജനകമാണ് അതിനാൽ ഞാൻ അവധിക്ക് അപേക്ഷിക്കരുത് ഇത്തരത്തിലുള്ള അവധി വളരെ ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതി വളരെ ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലുള്ള പരിശീലനം വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല നിങ്ങൾ ഒരു പരിശീലന പരിപാടി നടപ്പിലാക്കുകയാണെങ്കിൽ അതിന്റെ പഠന ഫലങ്ങൾ അവർ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ ആ കഴിവുകൾ കൈമാറ്റം ചെയ്യാനും അവരുടെ ജോലികൾ ചെയ്യാനും മറ്റും അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ മുതലായവയാണ് അതിനാൽ ഇതെല്ലാം കഴിയുന്നത്ര വിലയിരുത്തുകയും അളക്കുകയും ചെയ്യേണ്ടതുണ്ട് തുടർന്ന് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇംപാക്ട് നടപടികൾ വരുന്നു പ്രവർത്തന സ്വഭാവം അതായത് നിങ്ങൾ എന്തെങ്കിലും പഠിക്കുന്നത് ഒരു കാര്യമാണ് പക്ഷേ നിങ്ങൾ ഇത് നിങ്ങളുടെ ജോലിയിൽ പതിവായി ഉപയോഗിക്കുന്നതിനാൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്നതിന്റെ ഭാഗമായി ഇത് മാറുന്നു അത് തികച്ചും വ്യത്യസ്തമായ കാര്യമാണ് അതിനാൽ വീണ്ടും ഞാൻ മറ്റൊരു ഉദാഹരണത്തിലേക്ക് മാറാൻ പോകുന്നു ഉദാഹരണത്തിന് ഈ ദിവസങ്ങളിൽ നമ്മുടെ ലൈബ്രറികളിൽ ഇലക്ട്രോണിക് ഡാറ്റാബേസ് എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് ഉണ്ട് കൂടാതെ ഈ ഡാറ്റാബേസുകൾ വളരെ ചെലവേറിയതാണ് അതിനാൽ നിങ്ങൾക്ക് ഡാറ്റാബേസ് ലഭിക്കുകയും പലരും ഈ ഡാറ്റാബേസ് ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു അതിനാൽ എത്ര ഉപയോക്താക്കളുണ്ടെന്ന് നിങ്ങൾ വിലയിരുത്തുന്നു അല്ലെങ്കിൽ മുമ്പത്തെ ഉദാഹരണത്തിലേക്ക് മടങ്ങുമ്പോൾ ERP യുടെ കാര്യത്തിലും തുടക്കത്തിൽ ഒരു മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം നടപ്പിലാക്കുമ്പോൾ ആ സമയത്ത് പലരും അത് ഉപയോഗിക്കുന്നത് അത്ര സുഖകരമല്ലെന്ന് നിങ്ങൾ കണ്ടെത്തിയേക്കാം പക്ഷേ അവർ അത് ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കുകയും അതിൽ കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അവർ കാണുകയും ചെയ്തതിനുശേഷം യഥാർത്ഥത്തിൽ ഇത് സ്വമേധയാ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു അതിനാൽ ഉപയോഗ ഡാറ്റ ശേഖരിക്കാൻ കഴിയും പ്രവർത്തനം പെരുമാറ്റം ഇവയെല്ലാം പിന്നീട് വിലയിരുത്തപ്പെടുന്നു ഈ ടെക്നോളജിയുമായി കൂടുതൽ സുഖം അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാകും കൂടാതെ ലീവുകൾക്കായി അപേക്ഷിക്കുന്നതിന് സാധാരണ പേനയും പേപ്പർ രീതിയും ഉപയോഗിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല അത് അത്ര സുഖകരമല്ലാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ടായിരിക്കാം അതിനാൽ നിങ്ങൾ കാരണം കണ്ടെത്തുക തുടർന്ന് ഇത് ഉപയോക്തൃ സൌഹൃദമാണോ അല്ലയോ എന്തെങ്കിലും തകരാറുകൾ പരിഹരിച്ചോ ഇല്ലയോ എന്ന് നോക്കുക ഉദാഹരണത്തിന് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങളുടെ പക്കലുള്ള സിസ്റ്റം വളരെ മികച്ചതാണ് നമ്മൾക്ക് ഒരു സപ്പോർട്ടുണ്ട് നമ്മൾക്ക് വളരെയധികം സഹകരിക്കുന്ന സപ്പോർട്ട് സ്റ്റാഫുണ്ട് ഈ സാങ്കേതികവിദ്യയിൽ തകരാറുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഫോൺ എടുത്ത് ദയവായി എന്നെ സഹായിക്കാമോ എന്ന് പറയുന്നു കൂടാതെ ഇതുമായി ബന്ധമില്ലാത്ത വ്യക്തിയെ നമ്മൾ വിളിച്ചാൽ പോലും പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങളെ സഹായിക്കാൻ പോകുന്ന വ്യക്തിയുടെ കോൺടാക്റ്റ് വിവരങ്ങൾ അവർ ഉടൻ നമ്മൾക്ക് നൽകും അല്ലെങ്കിൽ നമ്മൾക്ക് അവരുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ ആരാണ് ഉത്തരവാദികളെന്നും ഇത് എങ്ങനെ പരിഹരിക്കാമെന്നും കണ്ടെത്താൻ അവർ അവരുടെ വഴിക്ക് പോകുന്നു ന്യായമായ സമയത്തിനുള്ളിൽ അവർ ഞങ്ങളെ തിരികെ വിളിക്കുന്നു ഇപ്പോൾ എനിക്ക് അത്തരം പിന്തുണയുണ്ടെങ്കിൽ സങ്കീർണ്ണമായ എന്തെങ്കിലും ഉപയോഗിക്കാനുള്ള എന്റെ സന്നദ്ധത ഗണ്യമായി വർദ്ധിക്കും കാരണം അത് ആവശ്യമാണെന്ന് എനിക്കറിയാം കൂടാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് ചെയ്യാൻ എന്നെ സഹായിക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടാകും അതിനാൽ കാര്യങ്ങൾ എങ്ങനെ വിലയിരുത്തപ്പെടുന്നു കാര്യങ്ങൾ എങ്ങനെ മാറുന്നു എന്നതിൽ ഈ കാര്യങ്ങൾ വളരെ ഉയർന്ന സ്വാധീനം ചെലുത്തുന്നു കൂടാതെ പ്രത്യേകിച്ചും സ്കോർകാർഡുകളുടെ പരിപാലനത്തിന്റെ കാര്യത്തിൽ ഉപയോക്തൃ ഡാറ്റ ഞങ്ങളുടെ പക്കലുണ്ടെങ്കിൽ എത്ര പേർ ദിവസേന ലോഗിൻ ചെയ്യുന്നു എത്ര ആളുകൾ ഈ പുതിയ പരിശീലനം ദിവസേന ഉപയോഗിക്കുന്നു തുടങ്ങിയവ വിലയിരുത്തപ്പെടുന്നു അതിനാൽ അതിൽ കൂടുതൽ നിക്ഷേപം വേണോ വേണ്ടയോ എന്ന് വിലയിരുത്താൻ അത് ഞങ്ങളെ സഹായിക്കും തുടർന്ന് ഇമ്പാക്ട് അളക്കുന്നു അതിനാൽ ആത്യന്തികമായി ഔട്ട്പുട്ട് എന്താണ് ലീവ് അപേക്ഷകൾ പ്രോസസ്സ് ചെയ്യുന്നതിന് ആവശ്യമായ സമയം ഇത് വെട്ടിക്കുറയ്ക്കുന്നുണ്ടോ ഇല്ലയോ ഇത് വെട്ടിക്കുറയ്ക്കുകയാണോ അതോ ഒരേ പോർട്ടലിനുള്ളിൽ കൂടുതൽ തരത്തിലുള്ള അവധികൾ ചേർക്കാൻ പുതിയ വഴികൾ തുറക്കുകയാണോ അതിനാൽ അതെല്ലാം ഡോക്യുമെന്റേഷന്റെ ആവശ്യം ശരിക്കും ഉണ്ടോ ഡോക്യുമെന്റേഷന്റെ ആവശ്യമുണ്ടെങ്കിൽ സിസ്റ്റത്തിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യൂമെന്റുകൾ അപ്ലോഡ് ചെയ്യാൻ ഇത് നിങ്ങളെ അനുവദിക്കുമോ ഇല്ലയോ അതിനാൽ അതെല്ലാം പരിഗണിച്ചു നമ്മൾ അവതരിപ്പിച്ച ഈ പുതിയ കാര്യം ഞങ്ങളുടെ ജീവനക്കാരിൽ എന്ത് സ്വാധീനം ചെലുത്തുന്നുവെന്ന് നമ്മൾ കാണുന്നു എന്നിട്ട് നമ്മൾ കൂടുതൽ മുന്നോട്ട് പോയി നമ്മുടെ നിക്ഷേപത്തിൽ നിന്ന് എന്തെങ്കിലും ലാഭം ലഭിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക അതിനാൽ പുതിയ പ്രോഗ്രാമോ പുതിയ സാങ്കേതികവിദ്യയോ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവന്ന സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ച് ഒരു പഠനം നടത്തേണ്ടതുണ്ട് കൂടാതെ ഈ വിശദമായ വിശകലനം ഒരു കാര്യകാരണ ശൃംഖല സ്കോർകാർഡ് ആയിരിക്കും തുടർന്ന് നമ്മൾ HR പ്രോസസ് സ്കോർകാർഡ് എന്നറിയപ്പെടുന്നതിലേക്ക് വരുന്നു സ്വാധീനം ചെലുത്തുന്നത് എന്താണ് എന്നതാണ് കോസൽ ചെയിൻ സ്കോർകാർഡ് ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് സ്കോർകാർഡ് എന്നത് ഒരു കാര്യം മറ്റൊന്നിൽ എങ്ങനെ അവസാനിക്കുന്നു എന്നതാണ് ഒരു ഐപിഒയേക്കാൾ വിശദമായ ഒന്നാണ് കോസൽ ചെയിൻ IPO കാരണവും ഫലവുമായ ബന്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ നമ്മൾ എച്ച്ആർ പ്രോസസ് ഹ്യൂമൻ റിസോഴ്സ് പ്രോസസ് സ്കോർകാർഡിലേക്ക് വരുന്നു ഇതിൽ നമ്മൾ തുടക്കത്തിൽ ഏറ്റെടുക്കൽ അല്ലെങ്കിൽ പ്രൊഫൈൽ വെച്ച് ആരംഭിക്കുന്നു അതിനാൽ നമ്മുടെ പക്കലുള്ളതെല്ലാം നമ്മൾ പട്ടികപ്പെടുത്തുന്നു അതിനാൽ നമ്മൾ റിസോഴ്സുകളായി സ്വീകരിച്ചതെന്തും അതിനുശേഷം നമ്മൾ തയ്യാറെടുപ്പിലേക്കും സന്നദ്ധതയിലേക്കും നീങ്ങുന്നു അതിനാൽ സംഭാവന നൽകാൻ നമ്മളുടെ വിഭവങ്ങൾ എത്രത്തോളം തയ്യാറാണെന്ന് നമ്മൾ വിലയിരുത്തുന്നു നമ്മൾ നേടിയ വിഭവങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നു അപ്പോൾ നമ്മുടെ വിഭവങ്ങൾ ഓർഗനൈസേഷനിലേക്ക് സംഭാവന ചെയ്യാൻ എത്രത്തോളം തയ്യാറാണെന്ന് നമ്മൾ കണ്ടെത്തും അതിനാൽ അവർക്ക് എത്രമാത്രം അനുഭവപരിചയമുണ്ടെന്ന് നമ്മൾ വിലയിരുത്തുന്നു അവർക്ക് എത്രത്തോളം അറിയാം അവരുടെ വിദ്യാഭ്യാസം എത്രയാണ് തുടങ്ങിയവ കൂടാതെ അവർ എത്രമാത്രം പഠിക്കുന്നു തുടർന്ന് നമ്മൾ മൈന്റെനൻസ് അല്ലെങ്കിൽ കോമ്പൻസേഷനിലേക്ക് നീങ്ങുന്നു നമ്മൾ അവർക്ക് എത്ര പണം നൽകുന്നുവെന്ന് നമ്മൾ കണ്ടെത്തുന്നു പിന്നെ അവരുടെ ബാധ്യത എന്താണെന്ന് നമ്മൾ വിലയിരുത്തുന്നു അവർ എത്ര പ്രചോദിതരാണ് അവരുടെ ഉൽപ്പാദന നിലവാരം എന്താണ് തുടർന്ന് നമ്മൾ നിലനിർത്തലിന്റെ ഒരു പട്ടികയും ഉണ്ടാക്കുന്നു എത്ര പേർ യഥാർത്ഥത്തിൽ ഓർഗനൈസേഷനിൽ തുടരുന്നു അവരുടെ വിശ്വസ്തത എന്താണ് എന്താണ് അവരുടെ കാലാവധി അവർ എത്രമാത്രം സംതൃപ്തരാണ് തുടർന്ന് ഓർഗനൈസേഷൻ വിടുന്ന ആളുകൾക്കായി നമ്മൾ എക്സിറ്റ് അഭിമുഖങ്ങൾ നടത്തുന്നു കൂടാതെ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ എല്ലാം വിലയിരുത്തുന്നു അതിനാൽ വിഭവങ്ങൾ പ്രത്യേകിച്ച് മാനവവിഭവശേഷി ഏറ്റെടുക്കുന്നതിനുള്ള മുഴുവൻ പ്രക്രിയയും നമ്മൾ വിലയിരുത്തുന്നു അവർ എന്തുമായാണ് വരുന്നതെന്ന് നമ്മൾ കണ്ടെത്തുന്നു നമ്മൾ എത്രയെണ്ണം എടുക്കുന്നു എന്നിട്ട് നമ്മൾ അവർക്ക് എത്ര പണം കൊടുക്കുന്നു ഇക്കാര്യത്തിൽ അവരുടെ പ്രചോദനം എത്രമാത്രം എന്നിവ നോക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവർക്ക് എത്ര പണം നൽകുന്നു എന്നിട്ട് നോക്കാം ഇവരുടെ വിശ്വസ്തത എന്താണെന്ന് യഥാർത്ഥത്തിൽ എത്ര പേർ അവിടെത്തന്നെ നിൽക്കുന്നു അവർ മികച്ച പ്രകടനം നടത്തുന്നവരായിട്ടും അവർ പോകുകയാണെങ്കിൽ ഇവിടെ എന്തോ കുഴപ്പമുണ്ട് അവരുടെ ഉത്പാദനക്ഷമത കുറവാണെങ്കിൽ ഇത് ഒരു കാരണമായിരിക്കാം അതിനാൽ നമ്മൾ കണ്ടെത്തുന്നു അതിനാൽ ഓരോന്നും നമ്മൾ ഇവിടെ വിലയിരുത്തുന്നു തുടർന്ന് നിലനിർത്തൽ വിശ്വസ്തത ജോലി സംതൃപ്തി എന്നിവ വിലയിരുത്തപ്പെടുന്നു കൂടാതെ അവർ പോകുമ്പോൾ പ്രശ്നം എവിടെയാണെന്ന് നമ്മൾ കണ്ടെത്തും ഇവിടെയായിരുന്നോ ഇവിടെയായിരുന്നോ ഇവിടെയായിരുന്നോ ഇവിടെയായിരുന്നോ എവിടെയാണ് പ്രശ്നം അതിനാൽ ഇതിനെ ഹ്യൂമൻ റിസോഴ്സ് പ്രോസസ് സ്കോർകാർഡ് എന്ന് വിളിക്കുന്നു ഓരോ ഘട്ടത്തിലും നമ്മൾ വിവരങ്ങൾ അളക്കുന്നു തുടർന്ന് വിവിധ ഓർഗനൈസേഷനുകൾ നടത്തിയ അല്ലെങ്കിൽ വിലയിരുത്തിയ പൊതു ഹ്യൂമൻ ക്യാപിറ്റൽ നടപടികളും നമുക്ക് വിലയിരുത്താം കൂടാതെ നമ്മളുടെ വ്യവസായത്തിനുള്ള ഏറ്റവും മികച്ച പ്രാക്ടീസ് സ്കോർകാർഡ് കൊണ്ടുവരാനും ഈ മികച്ച പ്രാക്ടീസ് സ്കോർകാർഡിനെതിരെ ഓരോ ജീവനക്കാരന്റെയും പുരോഗതി വിലയിരുത്താനും നമ്മൾക്ക് കഴിയും അതിനാൽ നമ്മളുടെ ജീവനക്കാരിൽ നിന്ന് നമ്മളുടെ പ്രതീക്ഷകൾ സജ്ജമാക്കാൻ ഇത് സഹായിക്കുന്നു അതിനാൽ നവീകരണവും സർഗ്ഗാത്മകതയും ഇവിടെ നൽകിയിരിക്കുന്ന ചില പാരാമീറ്ററുകൾ നമുക്ക് വിലയിരുത്താം അവർ എത്ര പുതുമയുള്ളവരാണ് അവർ എത്ര ക്രിയാത്മകമാണ് നമുക്ക് ഇത് കണക്കാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ മറ്റൊന്നില്ല അപ്പോൾ ജീവനക്കാരുടെ മനോഭാവം ജീവനക്കാരുടെ സംതൃപ്തി സംഘടനാ പ്രതിബദ്ധത ജീവനക്കാരുടെ ഇടപെടൽ ഇതെല്ലാം ആകാം ഈ ഓരോ നടപടികൾക്കും നമുക്ക് ചില മാനദണ്ഡങ്ങൾ സ്ഥാപിക്കാം പിന്നെ തൊഴിലാളികളുടെ സ്ഥിരത മറ്റൊന്നാണ് വിറ്റുവരവും അവസാനിപ്പിക്കലും മറ്റൊന്നാണ് കാലാവധിയും ദീർഘായുസ്സും തൊഴിലാളികളുടെ സ്ഥിരത വർദ്ധിപ്പിക്കുകയോ സംഭാവന ചെയ്യുകയോ ചെയ്യുന്നു അപ്പോൾ നമ്മൾക്ക് ജീവനക്കാരുടെ കഴിവുണ്ട് നമ്മൾക്ക് അനുഭവം പഠനം അറിവ് കഴിവുകൾ തുടങ്ങിയവയുണ്ട് ഒരു ജീവനക്കാരൻ എത്രമാത്രം കഴിവുള്ളവനാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിദ്യാഭ്യാസ നിലവാരം നമ്മൾക്കുണ്ട് പിന്നെ നമുക്ക് ഹ്യൂമൻ ക്യാപിറ്റലുണ്ട് ഓർഗനൈസേഷനിൽ മനുഷ്യ മൂലധനത്തിന്റെ വികസനത്തിനായി മാനവ വിഭവശേഷി വകുപ്പ് എന്താണ് നിക്ഷേപിക്കുന്നത് മാനവ വിഭവശേഷി വകുപ്പ് എന്താണ് ചെയ്യുന്നത് അവരുടെ നേട്ടം കണക്കിലെടുത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത് എങ്ങനെ നിലനിർത്താൻ ശ്രമിക്കുന്നു തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ മൊത്തം ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കണക്കാക്കാം നമ്മുടെ മനുഷ്യ മൂലധനത്തിന് നമ്മൾ നൽകുന്ന ഇൻപുട്ടുകളുടെ വിഭാഗമനുസരിച്ചുള്ള നിക്ഷേപം തുടർന്ന് 360° ഫീഡ്ബാക്ക് ലഭിക്കുന്നതിലൂടെ നേതൃത്വത്തെ വിലയിരുത്താം ലീഡർഷിപ്പ് ഇൻവെന്ററികൾ സൂക്ഷിക്കാം നേതൃത്വ ധാരണ ആളുകൾ അവരുടെ നേതാക്കളെ എങ്ങനെ കാണുന്നു തുടങ്ങിയവ വിലയിരുത്താം അവരുടെ ധാരണ ഒരു നേതാവ് എങ്ങനെയായിരിക്കണം എന്നതാണ് അപ്പോൾ നമുക്ക് ഉൽപ്പാദനക്ഷമത വിലയിരുത്താം ജീവനക്കാരൻ ജോലി ചെയ്യുന്ന യൂണിറ്റിന്റെ ഉൽപ്പാദനക്ഷമതയും സ്ഥാപനത്തിന്റെ മൊത്ത ഉൽപ്പാദനക്ഷമതയും വിലയിരുത്താവുന്നതാണ് കൂടാതെ അത് നമ്മളെ ഒരു ആശയം നേടാൻ സഹായിക്കും നമ്മൾ കാര്യങ്ങൾ ബെഞ്ച്മാർക്ക് ചെയ്യേണ്ടതുണ്ട് മികച്ച പ്രാക്ടീസ് സ്കോർകാർഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കേണ്ടതുണ്ട് കൂടാതെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാർ എവിടെയാണെന്ന് നമ്മൾക്ക് വിലയിരുത്താനാകും തുടർന്ന് തൊഴിൽ സേനയുടെ പ്രൊഫൈൽ ജോലി സൃഷ്ടിക്കൽ ഏറ്റെടുക്കൽ തൊഴിൽ വളർച്ച റിക്രൂട്ട്മെന്റ് സോഴ്സിംഗ് ഫലപ്രാപ്തി കാര്യക്ഷമത നഷ്ടപരിഹാരം ആനുകൂല്യങ്ങൾ എന്നിവയുണ്ട് നമ്മൾ അവർക്ക് എത്ര പണം നൽകുന്നു എന്തെല്ലാം നേട്ടങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നത് വേരിയബിൾ കോംപെൻസഷൻ വേരിയബിൾ കോംപെൻസഷൻ എത്രയാണ് ജീവനക്കാരുടെ ഉടമസ്ഥാവകാശ പദ്ധതികൾ ഓഹരി ഉടമസ്ഥാവകാശ പദ്ധതികൾ തുടങ്ങിയവ അതിനാൽ തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ ജീവനക്കാരൻ എത്രമാത്രം ഓർഗനൈസേഷനിൽ ഉൾപ്പെട്ടിരിക്കുന്നു പാലിക്കലും സുരക്ഷയും അതിനാൽ പരാതികളും ആവലാതികളും ആരോഗ്യ സുരക്ഷാ നിരക്കുകളും വ്യവഹാരങ്ങളും ജീവനക്കാർ എത്ര തവണ പരാതിപ്പെടുന്നു എത്ര ജീവനക്കാർ സ്ഥാപനത്തിനെതിരെ കേസെടുക്കുന്നു ഇത്തരത്തിലുള്ള എല്ലാ രേഖകളും നിലനിർത്താൻ കഴിയും സ്വീകാര്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ എന്താണ് മോശമായി കണക്കാക്കുന്നത് ഉദാഹരണത്തിന് ഉയർന്ന തോതിലുള്ള വളരെ സെൻസിറ്റീവ് മെഷിനറികളുള്ള ഒരു ഫാക്ടറിയിൽ അത് വളരെ വൈദഗ്ധ്യമുള്ള ആളുകൾ കൈകാര്യം ചെയ്യണം ഇടയ്ക്കിടെ നിങ്ങൾക്ക് അപകടങ്ങൾ ഉണ്ടായേക്കാം കൂടാതെ ഒരു നിശ്ചിത എണ്ണം അപകടങ്ങൾ സ്വീകാര്യമല്ലെന്ന് കണക്കാക്കപ്പെടുന്നു പക്ഷേ നമ്മൾ കുഴപ്പമില്ലെന്ന് പറയുന്നു കാരണം വളരെയധികം പ്രക്രിയകൾ നടക്കുന്നു അതിനാൽ ഈ നിരവധി അപകടങ്ങൾ അപകടങ്ങളുടെ നിരക്കിന് സ്വീകാര്യമായ മാനദണ്ഡമായിരിക്കും ഇതിൽക്കൂടുതൽ എന്തും മോശമാണ് ഇതിൽ കുറവുള്ളത് നമുക്ക് നല്ലതാണ് അങ്ങനെയെങ്കിൽ അത്തരം കാര്യങ്ങളിൽ എത്രപേർ സംഘടനയ്ക്കെതിരെ കേസെടുക്കുന്നു ചിലപ്പോൾ അത് നിങ്ങളുടെ നിയന്ത്രണത്തിന് പുറത്തായിരിക്കാം ആളുകൾ അവരുടെ മെഷീനുകൾ വളരെ സുരക്ഷിതമായും ജാഗ്രതയോടെയും കൈകാര്യം ചെയ്യുന്നില്ല അവർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു ഒപ്പം ഓർഗനൈസേഷനും കേസെടുക്കും അല്ലെങ്കിൽ യന്ത്രങ്ങൾ പഴയതാണ് മാത്രമല്ല അതിന്റെ പ്രതികരണം ഓർഗനൈസേഷന് ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ നല്ല നിലവാരമുള്ള യന്ത്രസാമഗ്രികളിൽ നിക്ഷേപിക്കാൻ സ്ഥാപനത്തിന് പണമില്ല അതിനാൽ ഇത് എത്ര തവണ സംഭവിച്ചു ഈ കാര്യങ്ങളുടെ കാര്യത്തിൽ സംഘടന എവിടെയാണ് നിൽക്കുന്നത് അതെല്ലാം ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട് കൂടാതെ ചില നടപടികൾ ചില മാനദണ്ഡങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ട് നിങ്ങളുടെ സ്വന്തം സ്ഥാപനത്തിന്റെ പ്രവർത്തനം അതിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തേണ്ടതുണ്ട് പിന്നെ ജീവനക്കാരുടെ ബന്ധം പിന്നെ ജീവനക്കാരുടെ ബന്ധങ്ങൾ എത്ര പേർ ഹാജരില്ല അലസതയോടല്ലാതെ എത്ര പേർ വൈകി വരുന്നു ജീവനക്കാരന്റെ തൊഴിൽ ജീവിത ബാലൻസ് മുതലായവ അതിനാൽ ഇത് മികച്ച പരിശീലന സ്കോർകാർഡാണ് ഇപ്പോൾ നമുക്ക് കൂടുതൽ സ്വീകാര്യമായ സ്കോർകാർഡിലേക്ക് വരാം അത് ഈ ദിവസങ്ങളിൽ ഒരു സ്ഥാപനത്തിൽ മിക്ക ഓർഗനൈസേഷനുകളിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സമതുലിതമായ സ്കോർകാർഡാണ് കപ്ലാനും നോർട്ടനും ചേർന്നാണ് ഇത് വികസിപ്പിച്ചത് കൂടാതെ ഇത് വിവിധ രീതികളിൽ വിലയിരുത്തപ്പെട്ടു ഈ അവതരണത്തിന്റെ അവസാനം ഞാൻ ഒരു പേപ്പർ കാണിക്കും അത് എഴുതിയത് കപ്ലാനും നോർട്ടനും ആണ് അതിന്റെ ലിങ്ക് ഉണ്ട് അവതരണത്തിന്റെ അവസാനം എന്തായാലും ഞാൻ ആ ലിങ്ക് കാണിക്കും അതിനാൽ സമതുലിതമായ സ്കോർകാർഡ് എന്നത് പ്രവർത്തന യൂണിറ്റുകളുടെ വ്യക്തിഗത പ്രക്രിയകളിലെ വ്യക്തിഗത ജീവനക്കാരുടെ സ്കോർകാർഡാണ് അത് ഓർഗനൈസേഷന്റെ കാഴ്ചപ്പാടും തന്ത്രവും അടിസ്ഥാനമാക്കി വിലയിരുത്തപ്പെടുന്നു കൂടാതെ ഈ കാഴ്ചപ്പാടും തന്ത്രവും സാമ്പത്തിക വീക്ഷണം ഉപഭോക്തൃ വീക്ഷണം ആളുകളുടെ കാഴ്ചപ്പാട് പ്രവർത്തന വീക്ഷണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടുന്നു നമ്മുടെ ഓഹരി ഉടമകളെ എങ്ങനെ തൃപ്തിപ്പെടുത്താം എന്നതാണ് സാമ്പത്തിക വീക്ഷണം ഷെയർ ഹോൾഡേഴ്സും സ്റ്റെയ്ക്ഹോൾഡേഴ്സും തമ്മിലുള്ള വ്യത്യാസം യഥാർത്ഥത്തിൽ ഓഹരിയുടെ ഒരു ഭാഗം ലഭിക്കുന്ന ആളുകളാണ് ഷെയർഹോൾഡർമാർ അവർ ഓർഗനൈസേഷന്റെ ഉടമസ്ഥ ഭാഗമായിരിക്കും എന്നതാണ് അതിനാൽ ഓർഗനൈസേഷനുമായുള്ള അവരുടെ ബന്ധം പണത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് സ്റ്റേക്ക്ഹോൾഡർമാരെക്കുറിച്ച് പറയുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓർഗനൈസേഷനിൽ എന്തെങ്കിലും പങ്കാളിത്തമുള്ള ആളുകളെയാണ് സ്റ്റേക്ക്ഹോൾഡർമാർ എന്ന് പറയുന്നത് അത് പണമാകാം സംതൃപ്തിയായിരിക്കാം ലൊക്കേഷനായിരിക്കാം എന്തും ആകാം സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നവരാണ് സ്റ്റേക്ക്ഹോൾഡർമാർ അവർ അയൽക്കാർ ആവാം സ്ഥാപനത്തിന്റെ ഭൌതിക അയൽക്കാർ ഫാക്ടറി ഉൽപ്പാദിപ്പിക്കുന്ന മലിനീകരണം മൂലം അനുഭവിക്കുന്ന ഫാക്ടറിയുടെ പരിസരത്ത് താമസിക്കുന്ന ആളുകൾ ആവാം ഫാക്ടറിയുടെ സ്വന്തം ആശുപത്രി സ്വന്തം സ്കൂൾ തുടങ്ങിയവയാൽ പ്രയോജനം നേടുന്നവർ ആകാം അതിനാൽ ഈ ആളുകൾക്കെല്ലാം പണം ലഭിക്കുന്നില്ലെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ഓർഗനൈസേഷനിൽ പണമിടപാട് ഇല്ലെങ്കിലും അവർ ഇപ്പോഴും ഓർഗനൈസേഷനാൽ ബാധിക്കുന്നു അതിനാൽ അതാണ് സ്റ്റേക്ക്ഹോൾഡേഴ്സ് അതിനാൽ അതാണ് സാമ്പത്തിക വീക്ഷണം കാഴ്ചപ്പാടിന്റെയും തന്ത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ ഉപഭോക്താക്കൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതാണ് ഉപഭോക്തൃ വീക്ഷണം എന്താണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം അതാണ് സമതുലിതമായ സ്കോർകാർഡിന്റെ മുഴുവൻ പോയിന്റും നമ്മളുടെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പാരാമീറ്ററുകൾ വിലയിരുത്തുന്നു ഈ വീക്ഷണകോണിൽ നിന്ന് നമ്മളുടെ ഉപഭോക്താക്കൾ ഞങ്ങളെ കുറിച്ച് എന്താണ് പറയുന്നത് നമ്മൾ ടൺ കണക്കിന് പണം സമ്പാദിച്ചേക്കാം പക്ഷേ നമ്മളുടെ ഉപഭോക്താക്കൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതിൽ തൃപ്തരല്ലെങ്കിൽ എന്താവും അവർ നമ്മിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ടാകാം കാരണം നമ്മൾ മാത്രമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിവിധ കാരണങ്ങളാവാം പക്ഷേ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ അവർ തൃപ്തരല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് ആളുകളുടെ കാഴ്ചപ്പാട് ഞങ്ങളുടെ ജീവനക്കാർ എങ്ങനെ സംഭാവന ചെയ്യുന്നു നമ്മളുടെ ജീവനക്കാർ നമ്മളെ എങ്ങനെ കാണുന്നു എന്നത് ജനങ്ങളുടെ കാഴ്ചപ്പാടാണ് കൂടാതെ പ്രവർത്തന വീക്ഷണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എങ്ങനെ മികവ് പുലർത്താം നമ്മുടെ വ്യത്യസ്തമായ പ്രക്രിയകൾ എങ്ങനെ നിർവഹിക്കാം കൂടാതെ ഈ പ്രക്രിയകൾ എങ്ങനെയാണ് ആത്യന്തികവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് ഈ പ്രക്രിയകൾ എങ്ങനെയാണ് ഓർഗനൈസേഷന്റെ ആത്യന്തിക കാഴ്ചപ്പാടിലേക്കും തന്ത്രത്തിലേക്കും നയിക്കുന്നത് ഈ കാര്യങ്ങൾ പരസ്പരം എങ്ങനെ നിരന്തരം സ്വാധീനിക്കപ്പെടുന്നു കാഴ്ചയും തന്ത്രവും നമുക്ക് എങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ നമ്മൾ ചെയ്യുന്നത് ഓർഗനൈസേഷന്റെ കാഴ്ചപ്പാടും തന്ത്രവും സ്വാധീനിക്കുന്നു അതിനാൽ ആത്യന്തിക ലക്ഷ്യവും ആ ആത്യന്തിക ലക്ഷ്യം നേടുന്നതിനായി ഉണ്ടാക്കുന്ന പദ്ധതികളും അതുപോലെ നമുക്ക് നിലവിൽ എത്ര പണമുണ്ട് ഏതുതരം തന്ത്രമാണ് നമുക്ക് സ്വീകരിക്കേണ്ടതെന്ന് നിർണ്ണയിക്കും കൂടാതെ നമ്മൾ സ്വീകരിക്കുന്ന തന്ത്രം ആത്യന്തികമായി വിവിധ കാര്യങ്ങൾക്കായി നമുക്ക് എത്ര പണം ചെലവഴിക്കാൻ കഴിയും എന്നതിനെ സ്വാധീനിക്കും അതുപോലെ നമ്മളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നമ്മളുടെ ഉപഭോക്താക്കളെ സ്വാധീനിക്കും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നമോ സേവനമോ വാങ്ങുന്ന ഉപഭോക്താക്കൾ അല്ലെങ്കിൽ നമ്മളുടെ മാർക്കറ്റ് നമ്മളുടെ ആത്യന്തിക വീക്ഷണത്താൽ തീരുമാനിക്കപ്പെടും അതുപോലെ കാഴ്ച്ചപ്പാട് ആരാണ് ഏതുതരം ഉപഭോക്തൃ അടിത്തറ അവിടെ നിലവിലുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ ഒരു തരത്തിലുള്ള ഉപഭോക്തൃ അടിത്തറയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകാം പക്ഷേ അത് നിലവിലില്ലെങ്കിൽ നിലവിലുള്ള ഉപഭോക്തൃ അടിത്തറയുമായി പൊരുത്തപ്പെടുകയും നമ്മൾക്ക് ഉൽപ്പാദിപ്പിക്കാനോ നൽകാനോ കഴിയുന്നതെന്തും വാങ്ങാൻ കഴിയുന്ന പരമാവധി ഉപഭോക്താക്കളെ ലഭിക്കുന്ന തരത്തിൽ ഓഫറുകൾ പരിഷ്കരിക്കുകയും ചെയ്യേണ്ടി വന്നേക്കാം ആളുകളുടെ കാഴ്ചപ്പാട് ഓർഗനൈസേഷനിൽ യഥാർത്ഥത്തിൽ നമ്മൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകൾ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ സ്വാധീനിക്കുന്നു നമ്മുടെ പക്കലുള്ളതനുസരിച്ച് ജനങ്ങളുടെ വിഭവങ്ങളുടെ കാര്യത്തിലും കാഴ്ചപ്പാട് പൊരുത്തപ്പെടുത്തണം അതിനാൽ ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു സമതുലിതമായ സ്കോർകാർഡിന്റെ ഉദാഹരണമാണിത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇവിടെ ഒരു ലക്ഷ്യമുണ്ട് മികച്ച ഉപഭോക്തൃ സംതൃപ്തി കൈവരിക്കുക 12 മാസത്തിൽ നഷ്ടപ്പെട്ട ഉപഭോക്താക്കളുടെ ശതമാനം ആണ് അളവ് അല്ലെങ്കിൽ മെട്രിക് ആറ് മാസത്തിനുള്ളിൽ ഉപഭോക്താക്കളുടെ നഷ്ടം 10 ൽ താഴെയാണെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇവിടെ ലക്ഷ്യമിടുന്നത് കൂടാതെ നഷ്ടപ്പെട്ട ഉപഭോക്തൃ റിപ്പോർട്ട് വികസിപ്പിക്കുക എന്നതാണ് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങൾ എന്ത് കാരണത്താൽ എത്ര ഉപഭോക്താക്കളെ നഷ്ടപ്പെട്ടുവെന്ന് കണ്ടെത്തുക തുടർന്ന് ഉപഭോക്താക്കൾ കൂടുതൽ നഷ്ടപ്പെടുന്നത് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു അതുപോലെ നമ്മൾ മികച്ച ഉപഭോക്തൃ സംതൃപ്തി കൈവരിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് സ്വീകരിക്കാവുന്ന രണ്ടാമത്തെ അളവ് അല്ലെങ്കിൽ മെട്രിക് ഉപഭോക്തൃ സംതൃപ്തി പൂർത്തിയാക്കിയ ഉപഭോക്താക്കളുടെ ശതമാനമാണ് CS എന്നാൽ കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കിയ ഉപഭോക്തൃ സംതൃപ്തി സർവേ എന്നാണ് അർത്ഥമാക്കുന്നത് നമ്മളുടെ 80 ഉപഭോക്താക്കളും ഈ വർഷം ഉപഭോക്തൃ സംതൃപ്തി സർവേ പൂർത്തിയാക്കണം എന്നതാണ് ലക്ഷ്യം ഇത് സംഭവിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ ഇത് എന്തുചെയ്യും ഉപഭോക്തൃ സംതൃപ്തി സർവേ മെച്ചപ്പെടുത്താൻ നമ്മൾ ഉപഭോക്തൃ ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നു തുടർന്ന് ഉപഭോക്തൃ സംതൃപ്തിയുടെ നിലവാരവും നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉപഭോക്തൃ സംതൃപ്തിയുടെ ക്വാർട്ടൈലും അതിനാൽ ഇത് സമതുലിതമായ സ്കോർകാർഡിന്റെ ഒരു ഉദാഹരണമാണ് സമതുലിതമായ സ്കോർകാർഡുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന ചില വിമർശനങ്ങൾ അതിന്റെ വ്യാഖ്യാനവും നടപ്പാക്കലും സംബന്ധിച്ച പ്രശ്നങ്ങളാണ് വ്യാഖ്യാനിക്കാനും നടപ്പിലാക്കാനും വളരെ ബുദ്ധിമുട്ടാണെന്ന് ആളുകൾ കരുതുന്നു സമയവും നിർവ്വഹണ നിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് അതിനാൽ അത് ഒരു വ്യക്തിയിൽ നിന്ന് ഒരു തലത്തിലേക്ക് ചെയ്യണം കൂടാതെ രണ്ടാമത്തെ കാര്യം ഇത് ഒരു റിപ്പോർട്ടിംഗ് ഉപകരണമാണ് എന്നതാണ് ഇത് ഒരു റിപ്പോർട്ടിംഗ് ഉപകരണമായി ഉപയോഗിക്കുന്നു ഇത് വളരെ സങ്കീർണ്ണമായതിനാൽ ഈ സ്കോർകാർഡ് പൂരിപ്പിക്കുന്ന ആളുകൾ അവരുടെ ബിസിനസ്സ് പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതായും ആളുകൾക്ക് തോന്നുന്നു ഉടമസ്ഥാവകാശവും ഉത്തരവാദിത്തവും ഇല്ലെന്ന് അവർ കരുതുന്നു സ്കോർകാർഡുകളിൽ ആളുകൾ എന്തെങ്കിലും എഴുതണം അതിനാൽ അവർ അത് എഴുതുകയും അതിൽ തുടരുകയും ചെയ്യുന്നു പക്ഷേ ഉത്തരവാദിത്തത്തിന്റെയോ ചുമതലയുടെയോ നിലവാരം നഷ്ടപ്പെട്ടതായി തോന്നുന്നു കൂടാതെ ഇത് വർഷങ്ങളുടെ അനുഭവത്തെയും പഠനത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് കൂടാതെ പല കേസുകളിലും നേരിട്ട് അളക്കാവുന്ന കാരണ പ്രഭാവ ബന്ധം സ്ഥാപിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ സ്കോർകാർഡ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ കാണിച്ചുതരാം നിങ്ങൾ ഈ സ്കോർകാർഡ് ഉപയോഗിക്കുമ്പോൾ നടപടികൾ തിരഞ്ഞെടുത്ത് എല്ലാ പങ്കാളികളും അംഗീകരിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് വളരെ പ്രധാനമാണ് ഏറ്റവും കുറഞ്ഞ സ്വീകാര്യമായ തലങ്ങളിൽ നിന്ന് മികച്ച പ്രകടന നിലവാരത്തിലേക്ക് ടാർഗെറ്റ് സജ്ജമാക്കുക വരുന്ന ഡാറ്റ നിരീക്ഷിക്കുക ഒരു പ്രത്യേക അളവിലുള്ള വിടവിനെ സംബന്ധിച്ച് ഒരു വിടവ് വിശകലനം നടത്തുക പ്രവർത്തനമോ പരിഹാരമോ തിരിച്ചറിയുക അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുക വ്യവഹാരം അല്ലെങ്കിൽ പരിഹാരം നടപ്പിലാക്കുക വ്യത്യസ്ത പാരാമീറ്ററുകൾ വിലയിരുത്താൻ നിങ്ങൾ ഉപയോഗിക്കുന്ന മൂല്യം പ്രവചിക്കുക പുരോഗതി നിരീക്ഷിക്കുക തുടർന്ന് വിടവുകൾ അടയ്ക്കുന്നതിന് പരിഹാരത്തിന്റെ ആഘാതം കണക്കാക്കി മൂല്യം കാണിക്കുക അതിനാൽ ഓരോ ഘട്ടത്തിലും വ്യക്തമായ കട്ട് റെക്കോർഡുകൾ നിലനിർത്തുകയും ഒരു കാരണ പ്രഭാവ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സ്കോർകാർഡും ഉപയോഗിക്കാൻ കഴിയും ചില ലിങ്കുകൾ ഇവിടെ ഉണ്ട് കപ്ലാനും നോർട്ടണും എഴുതിയ പേപ്പർ ആണിത് ഞാൻ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചുതരാം കൂടാതെ ഇതാണ് നിങ്ങൾക്കായി ഇവിടെയുള്ളത് എന്റെ കയ്യിൽ ഈ പേപ്പർ ഉണ്ട് സമതുലിതമായ സ്കോർകാർഡ് എങ്ങനെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് സിസ്റ്റം ടൂളായി ഉപയോഗിക്കാമെന്ന് മനോഹരമായി വിവരിക്കുന്ന ഒരു പേപ്പറാണിത് കൂടാതെ സമതുലിതമായ സ്കോർകാർഡ് രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്ത കപ്ലാനും നോർട്ടണും ചേർന്നാണ് ഈ പേപ്പർ എഴുതിയത് 2007 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഹാർവാർഡ് ബിസിനസ് റിവ്യൂവിൽ ഈ പേപ്പർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിനാൽ ഈ പേപ്പറിൽ ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ സമതുലിതമായ സ്കോർകാർഡ് എന്താണെന്നും അത് എങ്ങനെ ഓർഗനൈസേഷനിൽ ഉപയോഗിക്കാമെന്നും മനസ്സിലാക്കാൻ ഇത് വളരെ സഹായകമാകും എനിക്ക് നിങ്ങളെ ഇവിടെ കാണിക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം വെബ്സൈറ്റാണ് ബാലൻസ്ഡ് സ്കോർകാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റാണിത് കൂടാതെ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലൂടെ പോകാം കൂടാതെ ഇത് സമതുലിതമായ സ്കോർകാർഡിനെക്കുറിച്ചുള്ള എല്ലാത്തരം വിവരങ്ങളും നൽകുന്നു സമതുലിതമായ സ്കോർകാർഡ് എന്താണെന്നും അത് നിങ്ങളുടെ സ്ഥാപനത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നും സംബന്ധിച്ച എല്ലാത്തരം വിവരങ്ങളും നൽകുന്നു ഇത് വിവിധ ആളുകൾ പഠിച്ചു കൂടാതെ സമതുലിതമായ സ്കോർകാർഡ് ഉപയോഗിച്ച് എങ്ങനെ സ്ട്രാറ്റജി മാപ്പ് ചെയ്യാം എന്നതിന്റെ ഒരു ഉദാഹരണം ഇവിടെ കാണുക ഇതൊരു സൌജന്യ വെബ്സൈറ്റാണ് നിങ്ങൾക്ക് ഇതിലേക്ക് പോകാം ഇത് എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കാം ഈ ലെക്ച്ചറിൽ നിങ്ങൾക്കായി ഇത്രമാത്രം ആണുള്ളത് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി HR ചർച്ചകൾ തുടരും അതിനാൽ ശ്രദ്ധിച്ചതിന് വളരെ നന്ദി